ബയോറിയാക്റ്ററുകളുടെ എൻ പിറ്റി എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലെ പ്രഭാഷണം 15 ലേക്ക് സ്വാഗതം അവസാന ക്ളാസിൽ നമ്മൾ മോഡ്യൂൾ 4 ആരംഭിച്ചു അത് ബയോറിയാക്ടർ പ്രകടനത്തെ ബാധിക്കുന്ന കൾടിവേഷൻ പരാമീറ്ററുകളെ കുറിച്ചായിരുന്നു ബയോറിയാക്ടർ പ്രകടനത്തെ ബാധിക്കുന്ന ചില കൾടിവേഷൻ പരാമീറ്ററുകളും ബയോറിയാക്ടർ പരിസ്ഥിതി പരാമീറ്ററുകളും ആണ് നമ്മൾ കണ്ടത് നമ്മൾ അത് ഇന്നും തുടരും ബയോ റിയാക്ടറുകളുടെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന നിരവധി കൾടിവേഷൻ വേരിയബിളുകൾ ഉണ്ട് എന്നതാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ നാം കണ്ടത് അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ ആയ താപനില പിഎച്ച് മീഡിയത്തിലെ വിവിധ പദാർഥങ്ങൾ എയറേഷൻ അജിറ്റേഷൻ ലയിച്ച ഓക്സിജൻ നില എന്നിവയെ പറ്റി മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന താപനില ചെറുതാണെങ്കിൽ ജീവികളെ സ്റ്റീനോതെർമൽ എന്നും ജീവിക്കാൻ പറ്റുന്ന താപനില വലുതാണെങ്കിൽ ജീവികളെ യൂറിതെർമൽ എന്നും തരംതിരിക്കാം 15 degree c വരെ താങ്ങാൻ പറ്റുന്ന ഈ ജീവികളെ സൈക്റോ ഫീലിക് എന്നും 30 degree c വരെ താങ്ങാൻ പറ്റുന്ന ജീവികളെ മീസോഫീലിക് എന്നും 60 degree c വരെ താങ്ങാൻ പറ്റുന്ന ജീവികളെതെർമോഫീലിക് എന്നും വേർതിരിക്കാം ഒബ്ലിഗേറ്റ് ഫാൽക്കേറ്റീവ് എന്നീ വിശേഷണങ്ങളുംപിന്നെ അവയുടെ താപനിലയുടെ ആശ്രയത്വവും മനസ്സിലാക്കി ഒബ്ലിഗേറ്റ് എന്നാൽ കർക്കശം എന്നും ഫാകൽറ്റടിവ് എന്നാൽ അയവുള്ളതും എന്നാണ് അർത്ഥം പിന്നെ താപനിലയുടെ ഒരു ഗണിത രീതി നാം കണ്ടു ബീജബാങ്കുകളിലെ ഉപയോഗത്തിനുംമരണം സംഭവിച്ച മനുഷ്യരെ താൽക്കാലികമായി നിലനിർത്താനും ഉൽപ്പാദനത്തിനും ഗവേഷണത്തിനും സെൽ ലൈൻ നിലനിർത്തുന്നതിനും കുറഞ്ഞ താപനിലയുടെ ഉപയോഗം നമ്മൾ കണ്ടു വീഡിയോകളുടെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ അവ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അവ രസകരമായ വീഡിയോകളാണ് പിന്നെ താപനില നിയന്ത്രണത്തിന്റെ ചില വശങ്ങൾ പരിശോധിച്ചു പിന്നീട് മീഡിയത്തിന്റെ പി എചിൻറെ വൈവിധ്യമാർന്ന നിലകളിൽ നന്നായി വളരാൻ കഴിയും എന്നാൽ മറ്റ് ചില ജീവികൾ സസ്തനീ കോശങ്ങൾ പോലുള്ളവയുടെ വളർച്ച വളരെ ഇടുങ്ങിയ പി എച്ച് നിലയിലും ആയിരിക്കും അതിനാൽ ബയോറിയാക്റ്ററിൽ മികച്ചത് ലഭിക്കുന്നതിന് ബയോറിയാക്റ്ററിൻറെ പിഎച്ച് അളക്കുകയും നിയന്ത്രിക്കുകയും വേണം മീഡിയ ഘടകങ്ങൾ അടങ്ങിയ ബഫറുകൾ പിഎച്ച് നിയന്ത്രണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം മീഡിയയുടെ ഉയർന്ന അയോണിക ശക്തി കാരണം കോശങ്ങൾ വളരുന്നില്ല പിന്നെ നമ്മൾ ചുരുങ്ങിയ രീതിയിൽ എയറേഷനും അജിറ്റേഷനും aeration agitation കണ്ടു അവ കോശങ്ങളെ മിശ്രിതത്തിൽ നിലനിർത്തുന്നു അവ കോശങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നു ഈ പ്രഭാഷണത്തിൽ ഈ 2 വശങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കും നമുക്ക് മുന്നോട്ട് പോകാം അലിഞ്ഞു ചേർന്ന ഓക്സിജൻ അല്ലെങ്കിൽ DO നമ്മൾ അടുത്തതായി നോക്കുന്നത് അതാണ് കൾച്ചറിലെ എയ്റോബിക് കോശങ്ങൾ ദ്രാവകത്തിലാണ് അതിനാൽ അവയ്ക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ അത് മാധ്യമത്തിലെ ജലത്തിൽ ലയിച്ചതാണ് DO ലയിച്ച ഓക്സിജന് വായുവിനൊപ്പം ശതമാനക്കണക്കായി കിട്ടുന്നു മിക്ക ബയോ റിയാക്ടറുകളിലും പ്രധാനമായും വായു ഓക്സിജൻ സ്രോതസ്സാണ് അതിനാൽ ഓക്സിജൻ അളവ് എയർ സാച്ചുറേഷൻ ആയി കണക്കാക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം സന്തുലിതാവസ്ഥ എന്ന ആശയം നിങ്ങളെ പരിചയപ്പെടുത്താം വായുവുമായി സമ്പർക്കത്തിൽ വരുന്ന ജലം നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം വായുവിലുള്ള ഓക്സിജൻ ജലഘട്ടം ദ്രാവകഘട്ടം വാതകഘട്ടം എന്നിവയിലൂടെ ഒരു നിശ്ചിത സമതുലിതാവസ്ഥ കൈവരിക്കുന്നു സൂക്ഷമമായി പറഞ്ഞാൽ ഓക്സിജൻ തന്മാത്രകൾ വാതകഘട്ടത്തിൽ നിന്ന് ദ്രാവക ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു നിരക്ക് ഉണ്ട് ദ്രാവക ഘട്ടത്തിൽ നിന്ന് ഓക്സിജൻ തന്മാത്രകൾ വാതകഘട്ടത്തിലേക്ക് നീങ്ങുന്ന നിരക്കും ഉണ്ട് ഒരു നിശ്ചിത ഘട്ടത്തിൽ ഓക്സിജൻ തന്മാത്രകൾ ദ്രാവകഘട്ടത്തിൽ നിന്ന് വാതക ഘട്ടത്തിലേക്കും തിരിച്ചും പോകുന്നതിന്റെ നിരക്ക് തുല്യമാകും ഈ അവസ്ഥയാണ് സന്തുലിതാവസ്ഥ എന്ന് നാം വിളിക്കുന്നത് ഗാഢതയെ കുറിച്ച് ഹെൻറിയുടെ നിയമം നൽകുന്ന ഒരു പ്രത്യേക ബന്ധം ഉണ്ട് സന്തുലിതാവസ്ഥ കൈവരിക്കുമ്പോൾ നിങ്ങൾക്ക് വായുവിൽ 21 ശതമാനം ഓക്സിജൻ ഉണ്ട്ജലത്തിൽ ഏതാണ്ട് 8 പിപിഎം ഓക്സിജൻ ഒരു ലായക വാതകമാണ് ഇത് 8 പിപിഎം ആണ് അതായത് ഒരു ലിറ്ററിൽ 8 മില്ലി ഗ്രാം ആണ് എന്നു നിങ്ങൾക്ക് കാണാം വായുവിൽ 21 ശതമാനം ഓക്സിജൻ ഉണ്ട് 2 ഘട്ടങ്ങളിലൂടെയും പോകുന്ന ഏതൊരു ജീവിവർഗ്ഗത്തിനും ഇത് ശരിയാണ് തെർമോഡൈനാമിക്സിൽ ഇത് പറയുന്നുണ്ട് ഈ പ്രത്യേക ഉദാഹരണം അല്ലെങ്കിൽ ഈ പ്രത്യേക സിസ്റ്റം ബയോറിയാക്ടറുകളെ കുറിച്ച് നമ്മൾ വിശദമായി നോക്കി അല്ലേ വിവിധ യൂണിറ്റുകളിൽ ഓക്സിജന്റെ സന്തുലിതാവസ്ഥയിൽ വിഭജിക്കുന്നത് ദ്രാവകത്തിലെ അലിഞ്ഞ ഓക്സിജന്റെ ഗാഢതയും നല്കുന്ന വായുവിലെ ഓക്സിജന്റെ ഗാഢതയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് വായു ഓക്സിജൻ പൂരിതമാകുമ്പോൾ ദ്രാവകത്തിൽ ഒരു നിശ്ചിത അളവ് ഓക്സിജൻ ഉണ്ട് നിങ്ങൾ വാതകഘട്ടത്തിന്റെ ഘടന മാറ്റുകയാണെങ്കിൽ ദ്രാവകത്തിലെ സന്തുലിതാവസ്ഥയുടെ ഗാഢതയും മാറും വായുവിൽ 100 ശതമാനം ഓക്സിജൻ ആക്കിയാൽ 100 ഓക്സിജൻ വാതകം കൊണ്ട് മാറ്റുകയാണെങ്കിൽ ദ്രാവകത്തിലെ ഓക്സിജന്റെ ഗാഢതയും വളരെ വ്യത്യസ്തമാകുംഅത് 40 പി എം ആകും 21 ശതമാനം ഓക്സിജൻ മാത്രം അടങ്ങിയ വായു ആയിരുന്നപ്പോൾ 8 പിപിഎം ആയിരുന്നു വായു പൂർണ്ണമായും പൂരിതമാകുമ്പോൾ അത് 100 ശതമാനം പൂരിതമാണെന്ന് നിങ്ങൾ പറയുന്നു ഒപ്പം സാധാരണ കേസുകളിൽ 0 നും 100 നും ആയിരിക്കും അതേസമയം വാതക ഗാഢത മാറുമ്പോൾ നിങ്ങൾക്ക് 100 ശതമാനം അല്ലെങ്കിൽ പരമാവധി 480 ശതമാനം വരെ പൂരിതമാക്കാൻ കഴിയും എന്ന് നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കറിയാമോ ഇത് 21 ശതമാനം അതായത് 100 ശതമാനം ഓക്സിജൻ അതായത് ഗ്യാസ് ഘട്ടത്തിൽ പൂർണ്ണമായും ഓക്സിജൻ ആണെങ്കിൽ നിങ്ങൾക്ക് 480 ശതമാനം എയർ സാച്ചുറേഷൻ വരെ പോകാം ഇവിടെ വീണ്ടും ഒരു ബയോറിയാക്ടറിന്റെ ചിത്രം നോക്കാം കോശങ്ങൾ വളരുന്ന മാധ്യമമായ ഒരുപക്ഷേ DO പ്രോബ് പി എച്ച് പ്രോബ് വായു ഇൻലെറ്റ് താപനില പ്രോബ് എന്നിവ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ സിസ്റ്റങ്ങൾ ഒന്നുകിൽ യഥാർത്ഥമോ ആശയസംഹിതയോ ആകാം ഈ സാഹചര്യത്തിൽ നമ്മൾ ആശയപരമായ സിസ്റ്റം തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത് എന്നത് പിന്നീട് അല്പം കൂടുതൽ വ്യക്തമാകും അത് ഞാൻ പറയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന സിസ്റ്റം കുമിളകളെ പറ്റിയുള്ളതാണ് പുറത്തു വരാൻ പോകുന്ന വായു കുമിളകൾ വായു കുമിളകൾ ഓക്സിജൻ വഹിക്കുന്നവയും മാധ്യമത്തിലേക്ക് ഓക്സിജൻ നൽകുന്നതും കോശങ്ങൾ അവയെടുക്കുന്നതും ആണ് നമ്മൾ ഒരു മുഴുവൻ ബ്രോത്ത് എടുത്താൽ കുമിളകൾ ഉൾപ്പെടെ എല്ലാം അടങ്ങിയിരിക്കുന്നു തുടർന്ന് നമ്മൾ വാതക കുമിളകൾ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഈ സിസ്റ്റത്തിൽ ഓക്സിജന്റെ ഒരു ബാലൻസ് എഴുതുകയാണെങ്കിൽ ഇതാണ് നമ്മൾ തുടങ്ങുമ്പോഴുള്ള മൊത്തത്തിലുള്ള അടിസ്ഥാന ബാലൻസ് സമവാക്യം അതിനാൽ ഓക്സിജന്റെ ഇൻപുട്ട് നിരക്ക മൈനസ് ഓക്സിജന്റെ ഔട്ട്പുട്ട് നിരക്ക് പ്ളസ് ഓക്സിജന്റെ ഉൽപ്പാദനം മൈനസ് ഓക്സിജന്റെ ഉപഭോഗം സമം അളവ് എല്ലാ ടേംസും നിശ്ചിത സമയത്തിലുള്ള മാസ്സിലാണ് ഈ പ്രത്യേക സിസ്റ്റം ബ്രോത്ത് മൈനസ് കുമിളകൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് നിരക്ക് 0മാകും അത് നമ്മുടെ സമീപനം ഗണ്യമായി ലളിതമാക്കുന്നു അതിനാൽ ബ്രോത്തിന്റെ ദ്രാവക ഭാഗം മാത്രമാണ് നമ്മുടെ സിസ്റ്റം ദ്രാവകത്തിൽ നിന്ന് ഓക്സിജൻ പുറത്തേക്ക് പോകണമെങ്കിൽ സൂപ്പർ പൂരിതമായ അവസ്ഥകളിൽ എത്തണം സൂപ്പർ പൂരിത സാഹചര്യങ്ങളിൽ ഇത് പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്ന് അനുമാനിക്കാം നമ്മുടെ സിസ്റ്റത്തിൽ ഓക്സിജന്റെ ഔട്ട്പുട്ട് നിരക്ക് 0 ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇത് 0 ആയി ക്രമീകരിക്കുന്നത് തീർച്ചയായും ഇൻപുട്ട് റേറ്റിൽ വാതക കുമിളകൾ മുതൽ നമ്മുടെ സിസ്റ്റം വരെ ദ്രാവക ബ്രോത്ത് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രതിപ്രവർത്തനവും ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ നമുക്ക് ഉപഭോഗം നിലനിർത്താം ഒപ്പം ഓക്സിജന്റെ മാസ്സ് അളക്കാവുന്ന ഓക്സിജൻ ഗാഢതയുടെ അടിസ്ഥാനത്തിൽ എഴുതാം മാസ്സിൻറെ അളവ് ഗാഢതയാണ് ഇത് മാറ്റാൻ കഴിയുമെങ്കിൽ ഗാഢതയും മറ്റും കണക്കിലെടുത്ത് നമുക്ക് എഴുതാം ഇൻപുട്ട് നിരക്ക് ഉപഭോഗനിരക്കിനേക്കാൾ വലുതാണെങ്കിൽ കോശത്തിന്റെ ഉപഭോഗനിരക്കിനേക്കാൾ വളരെ വേഗത്തിൽ ഓക്സിജൻ നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സമാഹരണ നിരക്ക് 0 നേക്കാൾ കൂടുതലായിരിക്കും കൂടുന്നു ri rC അതിനാൽ Ri rC പോസിറ്റീവ് ആണ് അതിനാൽ DM ഈ സാഹചര്യത്തിൽ ഡിഒ ലയിച്ച ഓക്സിജൻ നില കൂടും ഇതരമാർഗ്ഗമെന്ന നിലയിൽ ഇൻപുട്ടിന്റെ നിരക്ക് കോശങ്ങളുടെ ഉപഭോഗനിരക്കിനേക്കാൾ കുറവാണെങ്കിൽ സമാഹരണം0 നേക്കാൾ കുറവാകുംഅപ്പോൾ DO കുറയാം കുറയുന്നു ഇൻപുട്ട് നിരക്ക് ഉപഭോഗത്തിന്റെ നിരക്കിന് തുല്യമാണെങ്കിൽ സമാഹരണ നിരക്ക് 0 ആണെങ്കിൽ DO ന്റെ വില മാറില്ല സ്ഥിരാങ്കമാണ് ഇത് സ്ഥിരമായ ഒരു സാഹചര്യമാണ് DO ഒരു സ്ഥിരമായിരിക്കും ബയോറിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ അവസ്ഥ കൈവരിക്കാൻ നമ്മൾ നോക്കുന്നു DO സെറ്റ് പോയിന്റ് അളക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഉണ്ട് DO സെറ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ സൂചിപ്പിച്ച DO യുടെ സ്ഥിരമായ മൂല്യം വ്യത്യസ്ത ശതമാനത്തിൽ ക്രമീകരിക്കാവുന്നതാണ് വായു സാച്ചുറേഷൻ ശതമാനം DO ഈ വായുവിനെ കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു കുറച്ചു മു മ്പ് നമുക്ക് ഒന്ന് കൂടി നോക്കാം ബ്രോത്ത് വായുവിലെ ഓക്സിജനുമായിസാച്ചുറേഷൻ ആവുമ്പോൾ DO 100 ശതമാനം ആകും അപ്പോൾ വായുവിൽ 21 ശതമാനം ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു അത് ശുദ്ധമായ ഓക്സിജൻ അന്തരീക്ഷമായി ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി സാധ്യമായ DO 480 ശതമാനം ആയിരിക്കും ഇത് 21 ശതമാനമാണ് അതായത് 100 ശതമാനം ഓക്സിജൻ അതിനാൽ ഹെൻറിയുടെ നിയമത്തിൽ p hx ൽ നിന്ന് p എന്നത് വായുവിന്റെ ഘട്ടത്തിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് x ദ്രാവകഘട്ടത്തിൻറെ ഗാഢത അല്ലെങ്കിൽ ദ്രാവകഘട്ടത്തിലെ മോൾ ഫ്രാക്ഷൻ h ഹെൻറിയുടെ നിയമ സ്ഥിരാങ്കംഇത് ഒരു രേഖീയ ബന്ധമാണ് അത്കൊണ്ട് 21 ശതമാനം 100 നു സമാനമായതുംഅതായത് ആ 100 ശതമാനം 480നു സമാനവും ആകും നമ്മൾ എന്ത്കൊണ്ട് ഇതിൽ താൽപ്പര്യം കാണിക്കുന്നു DO എന്നത് മാധ്യമത്തിൽ ഓക്സിജൻ കുമിഞ്ഞുകൂടുന്ന അളവ് മാത്രമാണ് കോശങ്ങൾ ആണ് ഓക്സിജന് എടുക്കുന്നത് എയറേഷന് വഴി ഓക്സിജന് വിതരണം ചെയ്യുന്നു എന്നാൽ ഡിഒ യഥാർത്ഥത്തിൽ ബ്രോത്തിലെ ഓക്സിജന്റെ അളവ് പറയുന്നു പല എയ്റോബിക് ബാക്ടീരിയകളും നന്നായി വളരാൻ 50 ശതമാനത്തിനു മുകളിൽ DO ആവശ്യമാണ് വ്യത്യസ്ത ജീവികളുടെ വളർച്ചയും ഉൽപ്പാദനക്ഷമതയും സംബന്ധിച്ച അസംഖ്യം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പല എയറോബിക് ബാക്ടീരിയക്കും 50 ശതമാനത്തിൽ കൂടുതൽ ആണ് ഓക്സിജൻ നില വേണ്ടത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കു താല്പര്യം എന്നാൽ ക്ലോസ്റിഡിയം അസറ്റോബ്യൂട്ടീലികം പോലുള്ള ചിലജീവികൾ മൈക്രോ എയ്റോബിക് ആണ് അവക്ക് ഓക്സിജൻ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ളൂ 5 ശതമാനത്തിൽ താഴെ ഇനി ഓക്സിജൻ വിതരണം നോക്കാം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഡിഒയെ കുറിച്ച് അറിയേണ്ടതുണ്ട് ഡിഒ നേരിട്ട് ജീവികളുടെ വളർച്ചയേയും ഉൽപ്പാദനക്ഷമതയെയും ബാധിക്കുന്നു എന്നാൽ അത് കുമിഞ്ഞുകൂടുന്ന ഒരു നില മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഓക്സിജൻ വിതരണത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ഞാൻ ഈ അർദ്ധഗോളം അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം വരച്ചിരിക്കുന്നു ഇത് ഒരു വൃത്തത്തിൽ ആണ് അത് ഒരു വായു കുമിളയെ പ്രതിനിധീകരിക്കുന്നു ഞാൻ ഇതിനെ ഏകദേശം 2 മാനങ്ങളിൽ പ്രതിനിധീകരിക്കുന്നു ഇതാണ് വായു കുമിള ഇതാണ് കോശം ഇത് ദ്രാവക മാധ്യമമാണ് ഇവ രണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നു വച്ചാൽ വായു കുമിളയുടെ ഉള്ളിൽ നിന്ന് ഓക്സിജൻ ദ്രാവകത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് കോശത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ആ ദ്രവ്യത്തിന്റെ ഗാഢതയോ മോൾ ഫ്രാക്ഷനുകളോ പരിശോധിച്ചാൽ വാതകത്തിന്റെ മോൾ ഫ്രാക്ഷന്റെ കാര്യത്തിൽ വായു കുമിളക്കുള്ളിൽ ഏറ്റവും ഉയർന്നതായിരിക്കും ഇന്റർഫെയിസിൽ ഇത് വാതകത്തിന്റെ ഗാഢതയാണ് ഇത് ദ്രാവക ഗാഢതയാണ് ചിലത് അത് തൽക്ഷണം ഇന്റർഫെയിസിൽ സമതുലിതാവസ്ഥ കൈവരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു പിന്നീട് കുറച്ചുനേരത്തേക്ക് നമ്മൾ ആശങ്കപ്പെടുന്നതെല്ലാം ദ്രാവക ഘട്ട മോൾഫ്രാക്ഷനുകളാണ് അതിനാൽ xAi ദ്രാവക ഘട്ടത്തിലെ മോൾ ഫ്രാക്ഷനു മായി കൂടെ സന്തുലനത്തിൽ ഉള്ളത് വാതക മോൾ ഫ്രാക്ഷനാണ് yAi പിന്നെ വായു കുമിളയോട് വളരെ അടുത്തൊരു സ്ഥലമുണ്ട് അവിടെ ഓക്സിജന്റെ ഗാഢത ഗണ്യമായി കുറയും ദ്രാവകത്തിൽ ഓക്സിജന്റെ മോൾ ഫ്രാക്ഷൻ ഗണ്യമായി കുറയുകയും ഈ ഭാഗത്തെ വാതക ദ്രാവക ഫിലിം എന്നു വിളിക്കുകയും ചെയ്യുന്നു ഫിലിം മേഖല ശരിക്കും ഇല്ല അവിടെ അത് ഒരു സാങ്കൽപ്പിക ബിന്ദു ആണ് ഗാഢത വേഗത്തിൽ കുറയുന്ന മേഖലയാണിത് പിന്നെ ദ്രാവകത്തിൻറെ ഗാഢത അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ xAL കോശത്തിലെ 2 ഘട്ടങ്ങളിലാണ് കോശം ഒരു അർദ്ധ ഖര അർദ്ധ ദ്രാവക ഘട്ടത്തിൽ ആണ് ഇത് ദ്രാവകഘട്ടം ആയതിനാൽ അതിന്റെ ഗാഢതയിൽ ഗണ്യമായ കുറവ് ഉണ്ടാകും C കോശം അതിന്റെ മെറ്റാബോളിക് ആവശ്യങ്ങൾക്കായി എടുക്കുന്ന അവസാന ഗാഢതയാണ് വാസ്തവത്തിൽ കോശത്തിൽ ഓക്സിജൻ ആവശ്യമുള്ള ഏക സ്ഥലം ഓക്സീകരണ ഫോസ്ഫോറിലേഷൻ പാത്ത് വേയിൽ വിവിധ സബ്സ്ട്രേറ്റുകൾ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണുകളുടെ അവസാന ഇലക്ട്രോൺ ആക്സപ്ടെർ ആകും എയ്റോബിക് ജീവികൾക്ക് ആവശ്യമായ ഒരേയൊരു സ്ഥലം എന്നാൽ അത് അത്യന്താപേക്ഷിതമാണ് അതിനാൽ ഇലക്ട്രോൺ സ്വീകരിക്കാൻ ബയോ റിയാക്ടറുകളിൽ ഓക്സിജൻ വിതരണം ചെയ്യേണ്ടതുണ്ട് വാതക ദ്രാവക ഇന്റർഫെയിസിൽ ഓക്സിജൻ കടത്തിവിടുന്നത് നമുക്ക് പരിഗണിക്കാം ഇത് സ്ഥിര അവസ്ഥ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം ഈ ഇന്റർഫെയിസിൽ ഉടനീളമുള്ള ഒഴുക്കുകളെയാണ് ഇവിടെ നോക്കുന്നത് അല്ലേ വാതക ദ്രാവക വിനിമയതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഓക്സിജന്റെ നിരക്ക് വാതക ദ്രാവക വിനിമയതലത്തിൽ നിന്നും പോകുന്ന ഓക്സിജന്റെ നിരക്കിന് തുല്യമാണ് സ്ഥിരമായ അവസ്ഥ കൈവരിക്കണമെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ഇന്റർഫേസ് വിടുന്ന ഓക്സിജന്റെ നിരക്ക് തുല്യമായിരിക്കണം വാതക ദ്രാവക വിനിമയതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഓക്സിജന്റെ നിരക്ക് വാതക ദ്രാവക വിനിമയതലത്തിൽ നിന്നും പോകുന്ന ഓക്സിജൻറെ നിരക്ക് ഇനി നമുക്ക് ഫ്ലക്സ് നോക്കാം Flux amount transferred per unit time per unit area ratearea ഒരു യൂണിറ്റ് ഏരിയക്ക് ഒരു യൂണിറ്റ് സമയം മാറ്റം ചെയ്യപ്പെടുന്ന തുകയാണ് ഫ്ലക്സ് അല്ലെങ്കിൽ ഇത് നിരക്ക് ഒരു യൂണിറ്റ് ഏരിയയിലാണ് അവിടെ ഒഴുകുന്ന ദിശയ്ക്ക് ലംബമായി ഫ്ലക്സ് മാസ് ഫ്ലക്സ് മൊമന്റം ഫ്ളക്സ് തുടങ്ങിയവ നിങ്ങളുടെ ഫ്ളോനെ കുറിച്ചുള്ള കോഴ്സിൽ കാണാം ഇവിടെ ഫ്ലക്സ് നോക്കാം ഇവിടെ കാര്യങ്ങൾ എളുപ്പമാണ് ഇവിടെ ഫ്ലക്സിന് ഒരു എഞ്ചിനീയറിംഗ് അർത്ഥമാണ് ഫ്ലക്സ് എന്ന പദം ഉപയോഗിക്കുന്ന രീതിയിലെ നേരിയ വ്യത്യാസം മൊഡ്യൂൾ 5 ൽ അത് വരുന്നുണ്ട് അത് കാണുമ്പോൾ ഞാൻ പറയും നിരക്ക് ഒരേ പോലെ അതിനാൽ വാതക ദ്രാവക ഇന്റർഫെയിസിൽ പ്രവേശിക്കുന്ന ഓക്സിജൻ ഫ്ലക്സ് വാതക ദ്രാവക ഇന്റർഫെയിസ് വിടുന്ന ഓക്സിജൻ ഫ്ലക്സിന് തുല്യമാകണം അതായത് flux of oxygen entering the gas liquid interface flux of oxygen leaving the gas liquid interface ഞാൻ ഇപ്പോൾ ഈ വ്യവസ്ഥകൾ ഒരേ സ്ഥലം അനുസരിച്ച് വിഭജിച്ചിരിക്കുന്നു ഫ്ലക്സ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഗുണം ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് അതായത് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഗുണം ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഗുണനഫലം ആണ് ഫ്ലക്സ് ഫ്ലക്സ് സംഭവിക്കുന്നതിന് ചാലകശക്തി അത്യാവശ്യമാണ് ഇവിടെ ഫ്ലക്സിനെ NA എന്ന് വിളിക്കുന്നു അത് A ആയി വികസിപ്പിക്കുകയും തുടർന്ന് ഓക്സിജന്റെ കാര്യത്തിൽ പ്രയോഗിക്കുകയും ചെയ്യും ഇത് ഒരു ജനറിക് സ്പീഷീസ് A ആണ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ky ആണ്ഓക്സിജന്റെ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് വാതകഘട്ടത്തിലെ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് ഇവിടെ ky ചാലകശക്തിയായ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ky ആണത് ചാലകശക്തി സാന്ദ്രതയുടെ വ്യത്യാസമാണ് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനുകളുടെ വ്യത്യാസം ഇത് ഇന്റെർഫേസിൽ എത്തുന്ന ഓക്സിജന്റെ ഫ്ലക്സ് ആണ് ദ്രാവകഭാഗത്ത് kx ഇവിടെ മോൾഫ്രാക്ഷനുകളുടെ വ്യത്യാസം അതുകൊണ്ട് ഇവരണ്ടും സ്ഥിരാവസ്ഥയുടെ അവസ്ഥഅനുസരിച്ച് തുല്യമാകണം ഇതിനെ സമവാക്യം 1 എന്ന് നമുക്ക് വിളിക്കാം ഫ്ലക്സ് ഒരേ പോലെ ആയിരിക്കണം അതിനാൽ ഓരോ പദവും NA യ്ക്ക് തുല്യമാണ് ഫ്ലക്സ് എന്ന് നാം നിർവചിച്ചിരിക്കുന്നു വാതകത്തിന്റെയും ദ്രാവകവശത്തെയും ഇന്റർഫെയിസ് ഗാഢതകൾ സമതുലിതാവസ്ഥയിലാണ് അതായത് 𝑦𝐴𝑖 ഉം xAi ഉം സമതുലിതാവസ്ഥയിലാണ് അതിനാൽ yAi എന്ന ഒരു സ്ഥിരാങ്കത്തെ xAiഎന്നായിഎഴുതാം സമതുലിതാവസ്ഥയിലുള്ള വക്രത്തെ ഓർമിച്ചാൽ സാധാരണഗതിയിൽ ഇവിടെ yAi ഒരു ഭാഗത്ത് ഒരു ഘട്ടത്തിന്റെ മോൾ ഫ്രാക്ഷനും മറ്റേ ഭാഗത്ത് വേറൊരു ഘട്ടത്തിന്റെ മോൾ ഫ്രാക്ഷനും ആണ് ഇത് സാധാരണയായി ഒരു വക്രമാണ് ചില ഭാഗത്ത് വക്രം ഒരു നേർരേഖയായി കണക്കാക്കാം അതാണു ഈ സമവാക്യത്തിന്റെ അർത്ഥം നമ്മൾ മൊത്തത്തിൽ സമതുലിത വക്രത്തിന്റെ രേഖീയത നോക്കി ആ ചെറിയ ഭാഗത്ത് yAi യും xAi യും തമ്മിലുള്ള ഒരു രേഖീയ ബന്ധം ആണ് നോക്കുന്നത് ഈ സമവാക്യത്തെ 2 എന്നു വിളിക്കാം m സമതുലിത സ്ഥിരാങ്കം ആണ് ഇത് ഹെൻറിയുടെ നിയമസ്ഥിരാങ്കമാണ് y 𝑦Ai xAi എന്നീ ഇന്റർഫെയിസ് ഗാഢതകൾ അളക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അളക്കാവുന്നതോ അറിഞ്ഞതോ ആയ ഗാഢതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമവാക്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇത് അളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില ആളുകൾ പഠനങ്ങൾ നടത്തിയപ്പോൾ ചില പ്രത്യേക അന്വേഷണങ്ങളിലൂടെ അളന്ന് അവിടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് സ്ഥിരമായി അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അളക്കാൻ കഴിയുന്ന ഗാഢതയുടെ അടിസ്ഥാനത്തിൽ ഇത് എഴുതുകയാണെങ്കിൽ Ky Kx എന്നിവ മൊത്തം മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്സ് ആണ് Ky ഉം Kx ഉം യഥാക്രമം വാതക ഭാഗവും ദ്രാവക ഭാഗവും ആണ് ഇവിടെ നിന്ന് ഇവിടെകാണു ട്രാൻസ്ഫർ കോ എഫിഷ്യന്റ് ഈ സാന്ദ്രതകളുടെ ചാലകശക്തി ഗാഢതകളാണ്അതാണ് ഫ്ലക്സ് വാതക ഘട്ടത്തിന്റെ ഗാഢത ദ്രാവക ഘട്ടത്തിന്റെ സാന്ദ്രത എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് നേരിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് വാതകഘട്ടമാണ് ഇത് ദ്രാവകഘട്ടമാണ് ഉദാഹരണത്തിന് വാതക ഘട്ടത്തിന്റെ ഘടന ആപ്പിളും ദ്രാവക ഘട്ടത്തിൻറെ കോമ്പോസിഷൻ ഓറഞ്ച് എന്നും ഇരിക്കട്ടെ ആപ്പിളിൽ നിന്ന് ഓറഞ്ചിനെയോ ഓറഞ്ചിൽ നിന്നും ആപ്പിളിനെയോ കുറയ്ക്കാനാവില്ല അതിനാൽ നമ്മൾ ഇവിടെ ഗാഢതയെ പറ്റി പറയുന്നു ഒരു തത്തുല്യ വാതക ഘട്ടത്തിന്റെ ഗാഢത കണക്കിലെടുക്കുമ്പോൾ തത്തുല്യ വാതകഘട്ടത്തിന്റെ ഗാഢത കണക്കിലെടുത്ത് ദ്രാവകഘട്ടത്തിലെ ഗാഢത അതാണ് 𝑦∗A ഈ ഗാഢതയാണ് വാതകഘട്ടവുമായി സന്തുലത്തിലുള്ളത് ദ്രാവക ഘട്ടത്തിന്റെ സാന്ദ്രതയുടെ സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട വാതക ഘട്ടവും xALആണ് അതിൻറെ വാതക ഘട്ടം 𝑦∗A ഉം ആണ് അതിനാൽ ഈ ഓരോ ഭാഗത്തെ മാസ് ട്രാൻസ്ഫർ കോയെഫീസിയൻറിന് പകരം ഒരു മൊത്തത്തിലുള്ള മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് അളക്കാവുന്നതോ മനസ്സിലാക്കാവുന്നതോ ആയ സമതുലിതമൂല്യത്തിൻറെ അളവ് അതുപോലെ ദ്രാവകത്തിന്റെ വശത്ത് അത് ഒരു മൊത്തം മാസ്സാണ് മൊത്ത മാസ്സ് കോയെഫിഷൻറ് K x 𝑥𝐴∗− 𝑥𝐴𝐿 ആണ് ഗ്യാസ് ഘട്ടത്തിന്റെ ബൾക്ക് സാന്ദ്രത y∗A ദ്രാവക ഘട്ടത്തിന്റെ ബൾക്ക് ഗാഢതയുമായി സമതുലിതാവസ്ഥയിലുള്ള വാതക ഘട്ട ഘടനയാണ് അതിനാൽ നിലവിലുള്ള അളവുകളെ അടിസ്ഥാനമാക്കി യഥാർത്ഥ അളവുകളല്ല ഇവ എന്നാൽ ഇവ ആശയപരമായ അളവുകളാണ് സന്തുലിതാവസ്ഥയുടെ സാഹചര്യങ്ങളിൽ ഇവ അളക്കാം എന്നാൽ ഗതാഗതം നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇവ ആശയപരമായാണ് അളവുകളാണ് ൽ ഓരോ പദവും NA യ്ക്ക്സമംആയതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം yAG y Ai യ്ക്ക് പകരം കൊടുത്താൽ ഇങ്ങനെ എഴുതാം മാറ്റിയെഴുതിയാൽ ഉം ഉം കൂട്ടുകഅപ്പോൾ കിട്ടുന്നത് ഇങ്ങനെ എഴുതാം എന്നിവയുടെ RHS തുല്യമായതിനാൽ നമുക്ക് ലഭിക്കും m വലുതാണെങ്കിൽ O2 നെപോലെ എങ്കിൽ ഓക്സിജന്റെ മൂല്യം ഹെന്റി നിയമ സ്ഥിരാങ്കപ്രകാരം 4 75 x 104 ആണ് ഒരുവലിയ സംഖ്യയാണ് m ഭിന്നസംഖ്യാഛേദമായത് കൊണ്ട് ഇത് അവഗണിക്കാം മറ്റ് വിലകളെ അപേക്ഷിച്ച് ഇത് വളരെ വലുതാണ് എന്നാൽ m വലുതാണെങ്കിൽ ഇവിടെയുള്ള മറ്റ് മൂല്യങ്ങളും വലിയതായിരിക്കും കാരണം മറ്റ് മൂല്യങ്ങളും ഒരേ അളവിൽ ആയിരിക്കും അതിനാൽ 1 ഹരിക്കണം വലിയ മൂല്യം 0 ആയി കണക്കാക്കാം അതിനാൽ 10 എന്ന സമവാക്യം ഇങ്ങനെ എഴുതാം നമ്മൾ മുന്പു കണ്ടത് പോലെ ഇവിടെ a യൂണിറ്റ് വ്യാപ്തത്തിലുള്ള ഇൻറെര്ഫെസിയൽ ഏരിയ മൊൾ ഫ്രാക്ഷൻ അടിസ്ഥാനത്തിൽ മൊത്തം മാസ് ട്രാൻസ്ഫർ കോയെഫിഷ്യന്റ് ഇത് മാധ്യമത്തിലെ മൊത്തം ഓക്സിജൻ സാന്ദ്രതയാൽ ഗുണിച്ചാൽ മോളാർ സാന്ദ്രതയുടെ അടിസ്ഥാനം ലഭിക്കുന്നു മോളാർ കോൺസെൻട്രേഷൻ ബേസിലും വോള്യമെട്രിക്ബേസിസിലും മാസ് ട്രാൻസ്ഫർ കോയഫിഷ്യന്റ് ഓക്സിജൻ എന്നത് 𝐾𝐿a ആണ് അതിനാൽ ഇതിനെ വോളിയമെട്രിക് ഓക്സിജൻ ട്രാൻസ്ഫർ കോയെഫിഷ്യൻറ് അഥവാ KLa എന്ന്വിളിക്കുന്നു നമ്മൾ ഇതെല്ലാം ചെയ്തത് ഓക്സിജനെ സംബന്ധിച്ച ഒരു ബാലൻസ് എഴുതാനാണ് വായു കുമിളയിൽ നിന്ന് ദ്രാവകത്തിലേക്ക് ഓക്സിജൻ വിതരണം ചെയ്യുന്ന സമവാക്യം അതുകൊണ്ട് നാം ലഭിച്ച ഇൻപുട്ടിന്റെ നിരക്ക് 𝑲𝑳a 𝑪𝑶2 ∗ − 𝑪𝑶2 ഒരു മാസ്സിൻറെ അടിസ്ഥാനത്തിൽ കിട്ടാൻ നമ്മുടെ സിസ്റ്റത്തിന്റെ അളവ് കൊണ്ട് ഗുണിക്കേണ്ടതുണ്ട് നമ്മൾ DO എന്ന് വിളിച്ചത് മറ്റൊന്നല്ല അളക്കപ്പെടുന്ന മാധ്യമത്തിലെ ഓക്സിജന്റെ ഗാഢതയാണിത് ഏത് സമയത്തും അളക്കാവുന്ന ഓക്സിജന്റെ അളവ് അതാണ് നമ്മുടെ DO ഇതാണ് ഗാഢതയും DO യും തമ്മിലുള്ള ബന്ധം K La ബയോറിയാക്റ്ററിലെ ഒരു പ്രധാന മാനദണ്ഡം ആണ് ഇതുവരെ KLa യെ കുറിച്ച് നമുക്കറിയാം അത് പലപ്പോഴും വിലയിരുത്തേണ്ടതുണ്ട് 𝑲𝑳a വാസ്തവത്തിൽ ഞാൻ എന്റെ ഡോക്ടറൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഓരോ തവണയും എന്റെ ബയോറിയാക്ടർ പ്രവർത്തിപ്പിക്കുന്ന സമയത്തിന് മുന്പ് വിലയിരുത്തുമായിരുന്നു അതിനാൽ വ്യവസായമേഖലയിൽ ബയോറിയാക്റ്ററിന്റെ ഓക്സിജൻ ട്രാൻസ്ഫർ ശേഷിയുടെ നേരിട്ടുള്ള അളവ് നിങ്ങൾക്ക് നൽകുന്നതിനാൽ KLaയുടെ ഒരു വിലയിരുത്തൽ ആവശ്യമാണ് KLaയെ ബയോറിയാക്റ്ററുകളിൽ കണക്കാക്കാൻ ചില രീതികൾ നിലവിലുണ്ട് ഇത് കൾടിവേഷന്റെയും ഫെർമെന്റേഷൻ റെയും അവസ്ഥയിൽ വിലയിരുത്തേണ്ടതുണ്ട് കാരണം താപനില മർദ്ദം ഘടന ഫ്ലോ നിരക്ക് പ്രക്ഷോഭ നിരക്ക് മുതലായവയുടെ ഒരു ധർമ്മമാണത് ഈ കാര്യങ്ങളും KLa യെ ബാധിക്കും ആദ്യംഈ മൂല്യങ്ങളൊക്കെ ചെയ്യുക പിന്നീട് KLa ചെയ്യാം 2 രീതിയിൽ kLa ചെയ്യാം ഒന്ന് സൾഫേറ്റ് ഓക്സീകരണ രീതിരണ്ട് ഡൈനാമിക് പ്രതികരണ രീതി ഡൈനാമിക് പ്രതികരണ രീതി ഏറ്റവും അഭിലഷണീയം ആണ് അതിനാൽ ഇത് ഒരു ആമുഖ കോഴ്സ് ആയതിനാൽ ഡൈനാമിക് പ്രതികരണ രീതിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ രീതിയുടെ പശ്ചാത്തലത്തിൽ സിസ്റ്റത്തിനു മുകളിൽ ഓക്സിജന്റെ മാസ് ബാലൻസ് നമുക്ക് വീണ്ടും നോക്കാം ബ്രോത്ത് മൈനസ് കുമിളകൾ ഇതാണ് ഇവിടെ നമ്മുടെ മാസ് ബാലൻസ് സിസ്റ്റം ബ്രോത്ത് മൈനസ് കുമിളകൾ ആനുപാതികമായ ഓക്സിജന്റെ അളവാണിത് ഔട്ട്പുട്ട് തോത് 0 കാരണം സൌകര്യപ്രദമായി തിരഞ്ഞെടുത്ത ബ്രോത്ത് മൈനസ് കുമിളകൾസിസ്റ്റം ആണ് ഈ സാഹചര്യത്തിൽ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന പ്രതിപ്രവർത്തനം 0 ആണ് ഇൻപുട്ട് തോത് നമ്മൾ കണ്ടതാണ് അത് 𝐾𝐿a𝐶𝑂2 ∗ − 𝐶𝑂2 𝑉കോശങ്ങൾ ഉണ്ടെങ്കിൽ ഉപഭോഗനിരക്കിന്റെ qO2 തവണയാണ് ഗുണം വ്യാപ്തം qO2 എന്നത് കോശ ഗാഢതയുടെ അടിസ്ഥാനത്തിൽ ഒരു കോശത്തിന്റെ ഗാഢതയനുസരിച്ച് ഓരോ വ്യാപ്തത്തിനും മാസ്സ് കിട്ടാൻ കോശത്തിന്റെ ഗാഢത കൊണ്ട് ഗുണിക്കണം ഓരോ സമയത്തും മാസ്സ് കിട്ടാൻ എടുക്കുന്ന അളവ് ഉപയോഗിച്ച് അതിനെ ഗുണിക്കേണ്ടതുണ്ട് ഓക്സിജൻ ഉപഭോഗ നിരക്കാണ് qO2 ഒരു കോശവും ഇല്ലെങ്കിൽ x0 ഒരേ വ്യാപ്തത്തിൽV constant ഈ സമവാക്യം ഇങ്ങനെ ആവും ഇന്റെഗ്രാൽ ടാബ്ലിൽ നിന്നും അപ്പോൾ ഉത്തരം ഗ്രാഫിൽ KLa ആണ് സ്ലോപ് ഡൈനാമിക് പ്രതികരണ രീതിയുടെ അടിസ്ഥാനം ഇത് തരുന്നു കോശങ്ങളുടെ അഭാവത്തിൽ KLa കോശങ്ങളുടെ അഭാവത്തിൽ യഥാർത്ഥ ബ്രോത്തിൽ കോശങ്ങൾ ഇല്ല സമയത്തിനെതിരെ ഓക്സിജൻ ഗാഢതയുടെ വ്യതിയാനം നൽകുന്ന ഒരു പരീക്ഷണത്തിൽ നിന്നുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് KLa എന്ന സ്ലോപ് ലഭിക്കും ഇതാണ് ബയോറിയാക്റ്ററിന്റെ kLa കണ്ടുപിടിക്കാൻ നടത്തുന്ന പരീക്ഷണം അതിനാൽ ഒരു സാധാരണ പരീക്ഷണം ഇങ്ങനെയാണ് ഇവിടെ ഒരു DO സ്കെയിൽ ഉണ്ട് ഒരു സമയ സ്കെയിലും ഉണ്ട് തുടക്കത്തിൽ ബ്രോത്തിൽ ഓക്സിജന്റെ അളവ് വായുവോ അരിച്ചവായുവോ അണുനശീകരിച്ച വായുവോ ആണ് അതിനാൽ ജീവികളില്ലെന്ന് നമ്മൾ ഉറപ്പാക്കുന്നു ആദ്യം നാം ബ്രോത്തിൽ നിന്ന് എല്ലാ ഓക്സിജനും നീക്കം ചെയ്യണം അത് ചെയ്യാൻ നൈട്രജൻ ബബിൾ ചെയ്യണം ബ്രോത്ത് വഴി നൈട്രജൻ ഭൌതികമായി എല്ലാ ഓക്സിജനെയും ബ്രോത്ത് സ്ട്രിപ്പു ചെയ്യുന്നു നൈട്രജൻ അവതരിപ്പിച്ചശേഷം അലിയുന്ന ഓക്സിജൻ നില പിന്തുടർന്നാൽ അത് 0 ആയി താഴുന്നു 0 എന്നതു തീർച്ചയായും 0 ആണെന്ന് ഉറപ്പാക്കുക കുറച്ച് നേരത്തേക്ക് 0 റീഡിങ് കാണുക തുടർന്ന് വായു കൊടുത്താൽ അത് ഇങ്ങനെയായിരിക്കും അലിയിച്ച ഓക്സിജൻ ദ്രവിച്ച ഓക്സിജൻ പൂരിത മായ മൂല്യത്തിൽ എത്തുകയും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇവിടെ സാധാരണ ഗതിയിൽ സാച്ചുറേഷൻ കുറവാണ് ഇതില് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ടിന്റെ ഡാറ്റ ലഭിക്കും ഇത് നോക്കുകയാണെങ്കിൽ ഒരു നേർരേഖയാണ് അതിനാൽ ഇത് സാധുതയുള്ളതാണ് ഈ ഗ്രാഫ് ഒരു നേർരേഖയുള്ള മേഖലയിൽ മാത്രം അതിനാൽ ഈ ഗ്രാഫ് ഒരു നേർരേഖയായി നില്ക്കുന്നു തുടർന്ന് ഈ സ്ലോപ് എടുത്തു അങ്ങനെയാണ് kLa കണ്ടെത്തുന്നത് DO പ്രോബ് ലയിച്ച ഓക്സിജൻ നില അളക്കാൻ ഉപയോഗിക്കുന്ന പ്രോബ് ചിത്രത്തിൽ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം അതായത് ഒരു ഇലക്ട്രോകെമിക്കൽ പ്രോബ് ആണ് പ്ലാറ്റിനം ആയ ഒരു കാഥോഡ് ഉണ്ട് വെള്ളിയാണ് ആനോഡ് അതിനാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോബ്ൽ ഒരു കാഥോഡും ഒരു ആനോഡും ഇലക്ട്രോലൈറ്റും ആവശ്യമാണ് ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇവയെല്ലാം ഒരു ചെറിയ അറയിൽ ഒരു ഓക്സിജൻ പെർമീബിൾ പാട വലയം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഒരു കാഥോഡ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ആനോഡും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോലൈറ്റും ഓക്സിജനും പെർമീബിൾ പാടയും ഇത് മാധ്യമത്തിൽ മുക്കി വെക്കുന്നു മാധ്യമത്തിൽ നിന്നുള്ള ഓക്സിജൻ പാടയിലൂടെ കടന്നു പോവുകയും കാഥോഡുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്ലാറ്റിനത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രോക്സിൽ അയോണുകൾ നൽകുന്നു ആനോഡിൽ നിങ്ങൾക്ക് ഒരു വെള്ളി ഉണ്ട് ഇലക്ട്രോഡുകളിൽ നടക്കുന്ന 2 പ്രതിപ്രവർത്തനങ്ങൾ മുകളിൽ ഉണ്ട് ഇലക്ട്രോഡുകളിൽ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഒരു കമ്പിയുമായി ഇലക്ട്രോഡുകൾ ബന്ധിപ്പിച്ചാൽ ഒരു കറന്റ് ഉണ്ടാകും ഉത്പാദിപ്പിക്കപ്പെടുന്ന കറൻറ് ഓക്സിജൻ പെർമീബിൾ പാടയിലൂടെ ഓക്സിജന്റെ ഫ്ലക്സിന് ആനുപാതികമാണ് ഇത് ലയിച്ച ഓക്സിജന് ആനുപാതികമാണ് എന്നതാണു തത്ത്വം ഇതാണ് ഇലക്ട്രോകെമിക്കൽ പ്രോബിന്റെ തത്ത്വം മറ്റ് ഒപ്റ്റിക്കൽ പ്രോബുകളും ഉണ്ട് ഞാൻ ഈ ഒപ്റ്റിക്കൽ DO സെൻസറിലേക്കുള്ള ലിങ്ക് കാണിക്കാം വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ കാണാം ഈ പ്രശ്നം 4 1 ഉപയോഗിച്ച് നമുക്ക് ഈ പ്രഭാഷണം പൂർത്തിയാക്കാം അടുത്ത പ്രസംഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാം KLa യുടെ അളവുകോൽ പരിശീലിക്കുന്നതിനുള്ള ഒരു പ്രശ്നമാണിത് 500 ആർപിഎമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു ഇളക്കുന്ന ടാങ്ക് ബയോറിയാക്ടർ 1 അന്തരീക്ഷ മർദ്ദം 37 ഡിഗ്രി c എന്നിവ ഡൈനാമിക് പ്രതികരണ രീതിയിലൂടെ ഡാറ്റ ലഭിച്ചു ഓക്സിജന്റെ ഉറവിടം വായുവായിരുന്നു ഒരു മില്ലിവോൾട്ട് മീറ്റർ ആണ് അലിഞ്ഞു ചേർന്ന ഓക്സിജൻ നില കാണാൻ ഉപയോഗിച്ചത് ഈ ഡാറ്റ നൽകുന്ന ബയോറിയാക്റ്ററിന്റെ KLa കണ്ടെത്തുക ഇത് ഒരു സാധാരണ ഡാറ്റ യാണ് എന്റെ ഡോക്ടറൽ കാലത്ത് ബയോറിയാക്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ നിന്നാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത് സമയത്തിനെതിരെ DO സമയം സെക്കന്റിലും DO മില്ലി വോൾടിലും നിങ്ങൾക്ക് ഈ വ്യത്യസ്ത വിലകൾ ഉണ്ട് ഈ ഡാറ്റ യാണ് നിങ്ങൾക്ക് KLa കണ്ടെത്താൻ ആവശ്യപ്പെടുന്നത് ദയവായി ഇത് ചെയ്യൂ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കാണും ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കും